നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോർമർ പോളാരിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച തുടരും ട്രാൻസ്ഫോർമറിൻറെ വോൾട്ടേജ് പൊളാരിറ്റിയും വൈദ്യുതധാരയുടെ ദിശയും നേടേണ്ടത് പ്രധാനമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ പ്രാഥമികവും ദ്വിതീയവുമായ ഭാഗത്താണ് വോൾട്ടേജുകളുടെ പൊളാരിറ്റി എന്നിവയുടെ ദിശ പ്രാഥമിക വൈദ്യുതധാരയും ദ്വിതീയ വൈദ്യുതധാരയും ആണ് കറണ്ട് ൻറെ പൊളാരിറ്റി മാറിയാൽ പരിവർത്തന അനുപാതം അതായത് n നെ n ആയി മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് ഇത് n അല്ലെങ്കിൽ n ആയിരിക്കുമോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും ഈ 2 ലളിതമായ നിയമങ്ങൾ നമ്മൾ പിന്തുടരും • V1 V2 രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും ഡോട്ട് ടെർമിനലുകൾ നെഗറ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫോർമർ വോൾട്ടേജ് സമവാക്യത്തിൽ n ഉപയോഗിക്കുക അല്ലെങ്കിൽ n ഉപയോഗിക്കുക • I1 I2 എന്നിവ ഡോട്ട് ഇട്ട ടെർമിനലുകളിലേക്ക് പ്രവേശിക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്താൽ ട്രാൻസ്ഫോർമർ കറണ്ട് സമവാക്യത്തിൽ n ഉപയോഗിക്കുക അല്ലെങ്കിൽ n ഉപയോഗിക്കുക ഈ 2 നിയമങ്ങൾ ഉപയോഗിച്ച് സാധ്യമായ 4 കോമ്പിനേഷനുകൾ ഉണ്ടെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും ഇവ 4 കോമ്പിനേഷനുകളായിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ ചർച്ച ചെയ്തു വോൾട്ടേജ് പോളാരിറ്റി തുല്യമാകുമ്പോൾ ഇവിടെ കാരണം 1 ഡോട്ട്ഡ് ടെർമിനലിനുള്ളിലേക്ക് പോകുന്നു മറ്റൊന്ന് ഡോട്ട്ഡ് ടെർമിനലിൽ നിന്ന് പുറത്തുവരുന്നു രണ്ടാമത്തെ കേസിൽ ട്രാൻസ്ഫോർമർ വോൾട്ടേജ് പോളാരിറ്റി സമാനമാണ് അതു കാരണം വൈദ്യുതധാരയുടെ ദിശ മാറുന്നതുകൊണ്ടാണ് മൂന്നാമത്തെ ചിത്രത്തിൽ വോൾട്ടേജ് പൊളാരിറ്റിയുടെ മാറ്റങ്ങൾ കാരണമാണ് കറന്റ് ഇതായിരിക്കും എന്തു കൊണ്ടെന്നാൽ 1 ഡോട്ട് ഇട്ട ടെർമിനലിനുള്ളിലേക്ക് ആണ് പോകുന്നത് മറ്റുള്ളവ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഡോട്ട്ഡ് ടെർമിനലിന് പുറത്ത് വരുന്നു ഇപ്പോൾ നാലാമത്തെ കേസിൽ വോൾട്ടേജുകളുടെ മാറ്റങ്ങളുടെ പൊളാരിറ്റി നമ്മൾ കാണും അതിനാൽ ആയിത്തീരും ഡോട്ട് ഇട്ട ടെർമിനലിനുള്ളിൽ 1 പോകുന്നതിനാൽ കറന്റും മാറുന്നു ഈ ഘട്ടത്തിലും ഇത് ഡോട്ട് ഇട്ട ടെർമിനലിനുള്ളിലേക്ക് പോകുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ ചർച്ച ചെയ്തത് ഇതാണ് ഇപ്പോൾ ട്രാൻസ്ഫോർമർ വോൾട്ടേജും കറണ്ട് പരിവർത്തന സമവാക്യങ്ങളും ഉപയോഗിച്ച് ട്രാൻസ്ഫോർമറിന്റെ മറ്റ് വശങ്ങൾ നമുക്ക് നോക്കാം ദ്വിതീയ സൈഡ് വോൾട്ടേജും പ്രൈമറി കറന്റും സെക്കൻഡറി കറന്റ് അല്ലെങ്കിൽ തിരിച്ചും നമുക്ക് പ്രാഥമിക സൈഡ് വോൾട്ടേജിനെ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ നമുക്ക് പറയാം ഇപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ പ്രാഥമിക വൈൻഡിംഗിൽ സങ്കീർണ്ണമായ ഗണിതശക്തി കാണാം സങ്കീർണ്ണമായ ഗണിതശക്തി ഇതായിരിക്കും പ്രൈമറി വിതരണം ചെയ്യുന്ന സങ്കീർണ്ണമായ ഗണിതശക്തി ഒരു നഷ്ടവുമില്ലാതെ ദ്വിതീയ വൈൻഡിംഗിലേക്ക് എത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം ട്രാൻസ്ഫോർമറിനെ നഷ്ടമില്ലാത്ത ഉപകരണമായും അനുയോജ്യമായും നമ്മൾ കണക്കാക്കി ട്രാൻസ്ഫോർമർ ഒരു ശക്തിയും ആഗിരണം ചെയ്യില്ല ഇപ്പോൾ ഇത് ഏതുവിധേനയും പ്രതീക്ഷിക്കപ്പെടുന്നു കാരണം അനുയോജ്യമായ ട്രാൻസ്ഫോർമറിന്റെ കാര്യത്തിൽ നിങ്ങൾ ട്രാൻസ്ഫോർമറിനെ നഷ്ടമില്ലാത്ത ഉപകരണമായി കണക്കാക്കും നമുക്ക് പ്രാഥമിക ഭാഗത്ത് നിന്നുള്ള ഇൻപുട്ട് ഇംപെഡൻസ് കാണുന്നത് ഇപ്പോൾ ദ്വിതീയ ഭാഗത്ത് ലോഡ് ബന്ധിപ്പിക്കുന്നു ലോഡ് കണക്റ്റു ചെയ്യുകയാണെങ്കിൽ ദ്വിതീയ ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസിനെ പ്രതിഫലിച്ച ഇംപെഡൻസ് എന്നും വിളിക്കുന്നു കാരണം ലോഡ് ഇംപെഡൻസ് പ്രതിഫലിക്കുകയോ പ്രാഥമിക ഭാഗത്തേക്ക് റഫർ ചെയ്യുകയോ ചെയ്യുന്നുവെന്ന് തോന്നുന്നു പ്രാഥമിക വശത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന ലോഡ് ഇംപെഡൻസായിട്ടാണ് ഇത് എഴുതിയതെന്ന് ചിലപ്പോൾ നിങ്ങൾ സാഹിത്യത്തിൽ കാണും എവിടെയെങ്കിലും ഇത് പ്രാഥമിക വശത്തെ പരാമർശിക്കുന്ന ലോഡ് ഇംപെഡൻസ് എന്ന് എഴുതിയതായി നിങ്ങൾ കാണും അതിനാൽ രണ്ടും ശരിയാണ് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്തുചെയ്യും എന്നത് ലോഡ് ഇംപെഡൻസ് പ്രാഥമിക വശത്തേക്ക് കണക്റ്റു ചെയ്തിരിക്കുന്നതു പോലെ പരിവർത്തനം ചെയ്യും തന്നിരിക്കുന്ന ഇംപെഡൻസിനെ മറ്റൊരു ഇംപെഡൻസായി പരിവർത്തനം ചെയ്യാനുള്ള ട്രാൻസ്ഫോർമറിന്റെ ഈ കഴിവ് ഇംപെഡൻസ് പൊരുത്തപ്പെടുത്തലിനുള്ള മാർഗ്ഗങ്ങൾ നൽകും ഇത് പരമാവധി പവർ കൈമാറ്റം ഉറപ്പാക്കും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ആശയങ്ങൾ മനസിലാക്കാൻ അനുയോജ്യമായ ട്രാൻസ്ഫോർമറുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം ഒരു അനുയോജ്യമായ ട്രാൻസ്ഫോർമർ 2400120 V 9 6 kVA എന്ന് റേറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ദ്വിതീയ വശത്ത് 50 തിരിവുകൾ ഉണ്ടെങ്കിൽ ടേൺസ് റേഷ്യോയും പ്രാഥമിക വശത്തെ തിരിവുകളുടെ എണ്ണവും പ്രാഥമിക ദ്വിതീയ വൈൻഡിംഗിനായുള്ള നിലവിലെ റേറ്റിംഗുകളും കണക്കാക്കേണ്ടതുണ്ട് അതിനർത്ഥം നമ്മൾ സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് ടൺസ് റേഷ്യോ ലഭിക്കും ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രാഥമിക വശത്തെ തിരിവുകളുടെ എണ്ണം കണ്ടെത്താൻ കഴിയും കാരണം അതിനാൽ തിരിവുകൾ ഇപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ കെവിഎ റേറ്റിംഗ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം അതിനാൽ നിലവിലുള്ളത് നൽകുന്നത് ഇപ്പോൾ ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ അനുയോജ്യമായ ട്രാൻസ്ഫോർമറിൽ സർക്യൂട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറവിട കറന്റും ഉറവിടം നൽകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും സങ്കീർണ്ണമായ പവറും കണക്കാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ 20 ഓം ലോഡ് ഇംപെഡൻസാണെന്ന് നമ്മൾ കാണും ഇത് ലളിതമാക്കാൻ ആ ലോഡ് ഇംപെഡൻസിനെ പ്രാഥമിക വശത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് നമുക്ക് അത് എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന പ്രതിഫലിച്ച ഇംപെൻഡൻസാണ് എന്ന് കരുതുക ഇപ്പോൾ നിങ്ങൾ ഇത് പ്രാഥമിക വശത്തേക്ക് പ്രതിഫലിപ്പിക്കുമ്പോൾ സർക്യൂട്ടിന്റെ മൊത്തം ഇംപെൻഡൻസ് ഇങ്ങനെ ആയിത്തീരും അതിനാൽ ഉം രണ്ടും ഡോട്ട് ഇട്ട ടെർമിനലുകൾ നിന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ആംഗിൾ ലഭിച്ചത് മൈനസ് n ഉണ്ടായിരുന്നപ്പോൾ ൻറെ കേസിൽ കണ്ടതിൽ നിന്ന് ആംഗിൾ മൂല്യം വ്യത്യസ്തമാണ് ഇപ്പോൾ അടുത്തത് എത്ര സങ്കീർണ്ണമായ വൈദ്യുതി വിതരണം ചെയ്യുന്നു എന്നതാണ് നമുക്കറിയാവുന്ന ഉറവിട വോൾട്ടേജും കറണ്ടും കണക്ക് കൂട്ടിയിട്ടുണ്ട് സങ്കീർണ്ണമായ ശക്തി കണ്ടെത്തുന്നതിനായി നമ്മൾ ൻറെ കോൻജുഗേറ്റ് എടുക്കും ഇപ്പോൾ നമുക്ക് മറ്റൊരു വിഷയം ആരംഭിക്കാം അത് 3 ഫേസ് സർക്യൂട്ട് ആണ് അടിസ്ഥാനപരമായി ഇതുവരെ നമ്മളുടെ കോഴ്സിൽ ചർച്ച ചെയ്തത് സിംഗിൾ ഫേസ് സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ടതാണ് സിംഗിൾ ഫേസ് ആണെങ്കിൽ പവർ സിസ്റ്റത്തിൽ ഒരു ജോഡി വയറുകളിലൂടെ ബന്ധിപ്പിച്ച 1 ജനറേറ്റർ അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കുന്നു ഈ ലൈൻ ലോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ കണക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ജോഡി വയറുകളുടെ സഹായത്തോടെ ലോഡിലേക്ക് വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിരിക്കുന്ന സിംഗിൾ ഫേസ് എസി പവർ സിസ്റ്റമാണിത് നമ്മൾ അതിനെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കുന്നു എന്നത് ഉറവിട വോൾട്ടേജിന്റെ ആർഎംഎസ് മാഗ്നിറ്റ്യൂഡ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നത് ഫേസ് കോണും എന്നത് ലോഡ് ഇംപെഡൻസുമാണ് ഒരേ ഉറവിടത്തിൽ ഒരേ ആവൃത്തിയിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകളോ സിസ്റ്റങ്ങളോ ഉണ്ട് പക്ഷേ വ്യത്യസ്ത ഫേസ് ഉണ്ടാകാം നമ്മൾ അവരെ പോളി ഫേസ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നു ചുവടെയുള്ള ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇടതുവശത്ത് 3 ട്രാൻസ്മിഷൻ ലൈനുകളുടെയും ലോഡിന്റെയും സഹായത്തോടെ ലോഡിലേക്ക് 2 വോൾട്ടേജ് സ്രോതസ്സുകൾ കണക്റ്റു ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണും നിങ്ങൾ ഈ 2 ഉറവിടങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ആണ് മറ്റൊന്നാണ് ആണ് രണ്ടും ഒരേ ആവൃത്തിയിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിന്റെ ആർഎംഎസ് മൂല്യവും തുല്യമാണ് പക്ഷേ ആംഗിൾ വ്യത്യസ്തമാണ് ഇത് അടിസ്ഥാനപരമായി നമ്മളുടെ 2 ഫേസ് 3 വയർ സംവിധാനമാണ് അവിടെ നമ്മളുടെ ഫേസ് അല്ലെങ്കിൽ അളവിൽ 2 കാണുന്നു 2 വ്യത്യസ്ത ഫേസ് ഈ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു വലതുവശത്തുള്ള ഈ ചിത്രത്തിൽ 4 വയറുകളുണ്ടെന്ന് നിങ്ങൾ കാണും അതിനാൽ അവ ABC ഉം n ഉം ആണെന്ന് നമ്മൾ പറയുന്നു ഇവ നമുക്ക് A ഫേസ് B ഫേസ് C ഫേസ് എന്നിങ്ങനെയും n ന്യൂട്രൽ വയർ എന്ന് പറയാൻ കഴിയും ഇപ്പോൾ ഈ 4 വയറുകളും 3 വോൾട്ടേജ് സ്രോതസ്സുകളെ 3 ലോഡുകളുമായി ബന്ധിപ്പിക്കുന്നു and എന്ന ലോഡുകൾക് വോൾട്ടേജ് ഉറവിടങ്ങൾക്ക് ഒരേ ആവൃത്തിയും ഒരേ ആർഎംഎസ് വോൾട്ടേജും ഉണ്ട് പക്ഷേ ഫേസ് മൂല്യങ്ങൾ വ്യത്യസ്തമാണ് ഫേസ് A ൻറെ മൂല്യം 0 ഡിഗ്രി ആണെന്ന് നിങ്ങൾ കാണും B യിൽ ഫേസ് മൂല്യം മൈനസ് 120 ഡിഗ്രിയും C യിൽ ഫേസ് മൂല്യം പ്ലസ് 120 ഡിഗ്രിയുമായിരിക്കും കൂടാതെ ഫേസ് മൂല്യം മൈനസ് 240 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്ക് പറയാം അടിസ്ഥാനപരമായി ഇവിടെ 3 ഉറവിടങ്ങൾക്ക് 3 വ്യത്യസ്ത ഫേസ് മൂല്യമുണ്ടെന്ന് കാണാം അതിനാൽ ഈ പ്രത്യേക സെറ്റ് സർക്യൂട്ടിനെ 3 ഫേസ് 4 വയർ സിസ്റ്റം എന്ന് വിളിക്കുന്നു കാരണം നമുക്ക് 3 ഫേസ് ഔട്ട്പുട്ട് ഉണ്ട് കൂടാതെ ലോഡിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് 4 ട്രാൻസ്മിഷൻ ലൈനുകൾ ആവശ്യമാണ് ഈ സന്ദർഭങ്ങളിൽ ഫേസ് 1 ൽ കൂടുതലാണെന്നും ലോഡിലേക്ക് കണക്റ്റുചെയ്യുന്നതിന് വയറുകളുടെ എണ്ണവും 2 ൽ കൂടുതലാണെന്നും നിങ്ങൾ കാണും ഇപ്പോൾ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി മുമ്പത്തെ സ്ലൈഡിന്റെ ഇടതുവശത്ത് നമ്മൾ കണ്ട 2 ഫേസ് സിസ്റ്റം ജനറേറ്റർ നിർമ്മിക്കുന്നത് പരസ്പരം പാരലൽ ആയി സ്ഥാപിച്ചിരിക്കുന്ന 2 കോയിലുകൾ അടങ്ങിയ ജനറേറ്ററാണ് ജനറേറ്ററിൽ ക്രമീകരിച്ചിരിക്കുന്ന കോയിലുകൾ 90 ഡിഗ്രി ഫേസിൽ ആയിരിക്കും 1 കോയിൽ സൃഷ്ടിക്കുന്ന വോൾട്ടേജ് മറ്റേതിൽ നിന്ന് 90 ഡിഗ്രി പുറകോട്ട് ആയിരിക്കും അവ പരസ്പരം പാരലലും ആയിരിക്കും 3 ഫേസ് സിസ്റ്റത്തിന്റെ കാര്യത്തിലും ജനറേറ്ററിന് 3 കോയിലുകൾ ഉണ്ടാകും ഒരേ വ്യാപ്തിയും ആവൃത്തിയും ഉള്ള 3 വ്യത്യസ്ത സ്രോതസ്സുകളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ അവ 120 ഡിഗ്രി ഫേസ് വ്യത്യാസത്തിൽ ആയിരിക്കും ഇപ്പോൾ 3 ഫേസ് സിസ്റ്റം ഏറ്റവും പ്രചാരത്തിലുള്ളതും ഏറ്റവും സാമ്പത്തികമായതുമായ പോളിഫേസ് സിസ്റ്റം ആണ് അതുകൊണ്ടാണ് സാധാരണ പവർ സിസ്റ്റം നെറ്റ്വർക്കിൽ മിക്കപ്പോഴും 3 ഫേസ് സിസ്റ്റത്തിലൂടെ വൈദ്യുതി വിതരണം ചെയ്യുന്നു നമ്മളുടെ ചർച്ചയിൽ 3 ഫേസ് സംവിധാനത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇപ്പോൾ 3 ഫേസ് സിസ്റ്റം വളരെ പ്രധാനമാണ് കാരണം ഒന്നാമതായി നമ്മുടെ വീടുകളിലോ വ്യവസായ സ്ഥാപനങ്ങളിലോ ലഭിക്കുന്ന വൈദ്യുതി ഊർജ്ജം പ്രധാനമായും 3 ഫേസ് പവർ ആണ് വീടുകളിൽ നിങ്ങൾക്ക് ഈ 3 ഫേസ് പവറിന്റെ സിംഗിൾ ഫേസ് ഔട്ട്പുട്ട് ഉണ്ടാകും വ്യാവസായിക സ്ഥാപനങ്ങളിൽ വലിയ ലോഡുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് 3 ഫേസ് വൈദ്യുതി വിതരണം നൽകിയിട്ടുണ്ടെന്നും ഇവയെല്ലാം 50 ഡിഗ്രി അല്ലെങ്കിൽ 50 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സ് വേഗതയിൽ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങൾ നേരിട്ട് കാണും ഇപ്പോൾ 3 ഫേസ് സിസ്റ്റത്തിലെ തൽക്ഷണ വൈദ്യുതി സ്ഥിരമായിരിക്കും അതിനർത്ഥം വോൾട്ടേജ് പവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജനറേറ്ററിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോഴോ പവർ P യുടെ മൂല്യം അതായത് ശരാശരി വൈദ്യുതി എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും ഈ പ്രത്യേക പ്രതിഭാസം പിന്നീട് നമ്മുടെ കോഴ്സിൽ ചർച്ച ചെയ്യും അതായത് 3 ഫേസ് സംവിധാനത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി സ്ഥിരമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും സിംഗിൾ ഫേസ് സിസ്റ്റത്തേക്കാൾ 3 ഫേസ് സിസ്റ്റം കൂടുതൽ ലാഭകരമാണ് കാരണം 3 ഫേസ് സിസ്റ്റത്തിന് ആവശ്യമായ വയർ തുല്യമായ 3 സിംഗിൾ ഫേസ് സിസ്റ്റങ്ങൾക്ക് ആവശ്യമായ വയർ അളവിനേക്കാൾ കുറവാണ് ബാലൻസ് 3 ഫേസ് വോൾട്ടേജുകൾ നമ്മൾ എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്ന് നോക്കാം ജനറേറ്ററിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ കാണുകയാണെങ്കിൽ എങ്ങനെ 3 ഫേസ് പവർ സൃഷ്ടിക്കും ജനറേറ്ററിന്റെ സ്റ്റേറ്റർ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന 3 സെറ്റ് വൈൻഡിംഗുകൾ ഉണ്ട് അടിസ്ഥാനപരമായി 120 സെറ്റ് അകലെയുള്ള 3 സെറ്റ് കോയിലുകൾ ഉണ്ടാകും ജനറേറ്ററിൽ കറങ്ങുന്ന കാന്തം കോയിലുകൾ കട്ട് ചെയ്യുമ്പോൾ ഈ കോയിലുകളിൽ വോൾട്ടേജ് ലഭിക്കും സാധാരണയായി ഈ കറങ്ങുന്ന കാന്തങ്ങൾ ഒന്നുകിൽ സ്ഥിരമായ കാന്തമാണ് അല്ലെങ്കിൽ ജനറേറ്ററിൽ ഒരു കറങ്ങുന്ന കാന്തം ലഭിക്കുന്ന തരത്തിൽ നിങ്ങൾ കോയിലുകൾ ക്രമീകരിക്കുന്നു ഈ 3 വൈൻഡിംഗുകളും 120 ഡിഗ്രി വ്യത്യാസമുള്ളതിനാൽ നിങ്ങൾക്ക് 3 ഫേസ് പവർ ഔട്ട്പുട്ടായി ലഭിക്കും കാണുന്നത് എന്നിവ പ്രത്യേക വൈൻഡിംഗ് അല്ലെങ്കിൽ കോയിലുകളാണ് അടിസ്ഥാനപരമായി 1 പ്രത്യേക ഫേസിന് 1 സെറ്റ് ക്രമീകരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നമ്മൾ കോയിലുകൾ ക്രമീകരിച്ചത് അവ സ്റ്റേറ്ററിന് ചുറ്റും 120 ഡിഗ്രി അകലെയാണ് എ ബി എന്നിവ കാണുകയാണെങ്കിൽ ആംഗിൾ വ്യത്യാസം 120 ഡിഗ്രി ആയിരിക്കും അതുപോലെ ബി സി എന്നിവയ്ക്കിടയിലും എ സി എന്നിവയ്ക്കിടയിലും 120 ഡിഗ്രി ആയിരിക്കും നമ്മളുടെ വൈഡിംഗുകൾ ഇപ്പോൾ 120 ഡിഗ്രി വ്യത്യാസപ്പെട്ടിരിക്കുന്നു കോയിലിന്റെ 1 അറ്റത്തെ സൂചിപ്പിക്കുന്ന ആദ്യം നമുക്ക് എടുക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നതു പോലെ നമ്മൾ കോയിൽ ചുറ്റിയിട്ടുണ്ട് അത് ഉള്ളിലേക്ക് പോകുകയും പിന്നീട് പുറത്തുവന്ന് അകത്തേക്ക് പോകുകയും ചെയ്യുന്ന തരത്തിൽ ആണ് അതിനാൽ നമുക്ക് അടിസ്ഥാനമായി ജനറേറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടിനു അനുസരിച്ച് നിരവധി തിരിവുകൾ എടുക്കാം റോട്ടർ തിരിക്കുമ്പോൾ കാന്തികക്ഷേത്രം ഈ കോയിലുകളിൽ നിന്നുള്ള ഫ്ലക്സ് കട്ട് ചെയ്യുകയും ഈ കോയിലുകളിൽ വോൾട്ടേജ് പ്രേരിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ കോയിലുകൾ 120 ഡിഗ്രി അകലെ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ കോയിലുകളിലെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും മാഗ്നിറ്റ്യൂഡിൽ തുല്യമാണെങ്കിലും 120 ഡിഗ്രി ഫേസ് വ്യത്യാസമുണ്ടാകും അതിനാൽ നിങ്ങൾ കാണുന്ന നിമിഷം കാന്തം കോയിൽ കട്ട് ചെയ്യുന്നു കോയിൽ A യിൽ വോൾട്ടേജ് കെട്ടിപ്പടുക്കുന്നതായി നമുക്ക് കാണാം ചിത്രത്തിൽ കാണുന്നതുപോലെ A യിൽ നിന്ന് ആരംഭിച്ച B ലേക്ക് നീങ്ങിയാൽ അതിനർത്ഥം 120 ഡിഗ്രിക്ക് ശേഷം വോൾട്ടേജ് കോയിലിൽ കെട്ടിപ്പടുക്കുന്നതായി കാണാം അതിനാൽ ബി കോയിലിൽ വോൾട്ടേജ് കെട്ടിപ്പടുക്കുന്നതായി നമുക്ക് കാണാം അതുപോലെ മറ്റൊരു 120 ഡിഗ്രിക്ക് ശേഷം സി കോയിലിൽ വോൾട്ടേജ് കെട്ടിപ്പടുക്കുന്നതായി നമുക്ക് കാണാം അതിനാൽ ഇപ്പോൾ ഈ 3 ഘട്ടങ്ങളും 120 ഡിഗ്രി അകലെയാണ് കൂടാതെ വ്യക്തിഗത കോയിലിൽ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് മിക്കവാറും സിനുസോയ്ഡൽ ആണ് ഇപ്പോൾ രണ്ട് കോയിലുകളും സിംഗിൾ ഫേസ് ജനറേറ്ററായി ക്രമീകരിക്കാൻ കഴിയുന്നതിനാൽ 3 ഫേസ് ജനറേറ്ററിന് സിംഗിൾ ഫേസ് 3 ഫേസ് ലോഡുകൾ എന്നിവയ്ക്ക് വൈദ്യുതി നൽകാൻ കഴിയും ഈ ചിത്രം കാണുകയാണെങ്കിൽ 3 സ്വതന്ത്ര കോയിലുകൾ ഉണ്ട് അവ 3 സ്വതന്ത്ര ഉറവിടങ്ങളായി കണക്കാക്കാം നമുക്ക് എന്തുചെയ്യാൻ കഴിയും 3 വ്യത്യസ്ത വോൾട്ടേജ് സ്രോതസ്സുകൾ ഉള്ളതായി തോന്നുന്ന രീതിയിൽ നമുക്ക് അവ ക്രമീകരിക്കാൻ കഴിയും ഈ ചിത്രം കാണുകയാണെങ്കിൽ ജനറേറ്റർ ചുററിയിരിക്കുന്നത് നക്ഷത്ര കണക്ഷനായിയാണ് അങ്ങനെയാണെങ്കിൽ ഫേസ് എ ഫേസ് ബി ഫേസ് സി എന്നിവ 3 സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സുകളായി കണക്കാക്കാം കൂടാതെ ജനറേറ്ററിൽ നിന്ന് ന്യൂട്രൽ പുറത്തേക്ക് വരുന്നു 3 ഫേസ് ക്രമീകരണത്തിൽ നിന്ന് 3 സിംഗിൾ ഫേസ് സൃഷ്ടിക്കാൻ കഴിയും ന്യൂട്രലും Aയും 1 ഫേസ് സൃഷ്ടിക്കും തുടർന്ന് ബി എൻ എന്നിവ വീണ്ടും മറ്റൊരു ഫേസ് സൃഷ്ടിക്കും സി എൻ എന്നിവ മറ്റൊരു ഫേസ് സൃഷ്ടിക്കും ഇപ്പോൾ നമുക്ക് 3 ഫേസ് സിസ്റ്റം ഉണ്ടാകും അത് നമുക്ക് 3 സ്വതന്ത്ര സിംഗിൾ ഫേസ് സിസ്റ്റങ്ങളും നൽകും നിങ്ങൾക്ക് 3 ഫേസ് 4 വയർ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത് സാധാരണയായി ദൃശ്യമാകും ഇപ്പോൾ നിങ്ങൾക്ക് 3 ഫേസ് 3 വയർ സംവിധാനവുമുണ്ടെങ്കിൽ ഡെൽറ്റ കണക്റ്റു ചെയ്ത ക്രമീകരണം പോലെ തോന്നിക്കുന്ന വിധത്തിൽ നമുക്ക് ഉറവിടങ്ങൾ ക്രമീകരിക്കാം ഇപ്പോൾ Y കണക്റ്റു ചെയ്ത വോൾട്ടേജ് അഥവാ സ്റ്റാർ കണക്റ്റു ചെയ്ത വോൾട്ടേജ് നമുക്ക് പരിഗണിക്കാം ഇതൊക്കെയാണ് ഫേസ് വോൾട്ടേജുകൾ ഇവ യഥാക്രമം ലൈനും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജുകളാണ് എന്നത് a n വരികൾക്കിടയിലുള്ളതും എന്നത് b n വരികൾക്കിടയിലുള്ളതും എന്നത് c n തമ്മിലുള്ളതും ആണ് ന്യൂട്രൽ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തതിനാൽ ഈ വോൾട്ടേജുകളെ ഫേസ് വോൾട്ടേജുകൾ എന്ന് വിളിക്കുന്നു വോൾട്ടേജ് ഉറവിടത്തിന് ഒരേ വ്യാപ്തിയും ആവൃത്തിയും ഉണ്ടെങ്കിൽ അവ 120 ഡിഗ്രി ഫേസിലാണെങ്കിൽ വോൾട്ടേജുകൾ സന്തുലിതമാണെന്ന് പറയപ്പെടുന്നു സമതുലിതമായ വോൾട്ടേജ് ഔട്ട്പുട്ടിന്റെ മാനദണ്ഡം എന്നാൽ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡുകൾ ഒരേ ആവൃത്തി ആയിരിക്കണം എല്ലാം പരസ്പരം 120 ഡിഗ്രി ആയിരിക്കണം ഈ ചിത്രം കാണുകയാണെങ്കിൽ എല്ലാ വോൾട്ടേജുകളും പരസ്പരം 120 ഡിഗ്രിയാണ് ഈ ക്രമീകരണം കാണുമ്പോൾ നമുക്ക് ഇത് ലളിതമായി പറയാൻ കഴിയും ഏതെങ്കിലും പോയിൻറിൽ ഉള്ള വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അതായത് ഈ പോയിൻറിൽ മൊത്തം വോൾട്ടേജിന്റെ ആകെത്തുക 0 ആയിരിക്കുമെന്ന് നമ്മൾ കാണും ഏത് സമയത്തും നമുക്ക് ലഭിക്കുന്ന മൂല്യം ഇത് വീണ്ടും ഒരു സമതുലിതമായ സിസ്റ്റത്തിന്റെ മാനദണ്ഡമാണ് ഇത് ഫേസർ രൂപത്തിലാണ് പക്ഷേ മാഗ്നിറ്റ്യൂഡ് രൂപത്തിൽ നമുക്ക് ഒരേ വ്യാപ്തിയുള്ളതിനാൽ നമുക്ക് ലഭിക്കുന്നത് സമതുലിതമായ ഫേസ് വോൾട്ടേജുകൾ മാഗ്നിറ്റ്യൂഡിൽ തുല്യമാണ് പക്ഷേ പരസ്പരം 120 ഡിഗ്രി ഫേസ് വ്യത്യാസമുണ്ടാകും വോൾട്ടേജുകളുടെ ഫേസ് 120 ഡിഗ്രി വ്യത്യാസം ഉള്ളതിനാൽ ഈ ഫേസകളുടെ ക്രമീകരണത്തിന് സാധ്യമായ 2 കോമ്പിനേഷനുകൾ ഉണ്ട് അതിനാൽ 1 ൽ അത്തരം ക്രമീകരണം ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നു അവിടെ 120 ഡിഗ്രി നേക്കാൾ മുന്നേറുകയും വീണ്ടും നേക്കാൾ 120 ഡിഗ്രി മുന്നേറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇതാണ് എഴുതാൻ കഴിയുക ഫേസ് വോൾട്ടേജിന്റെ ഫലപ്രദമായ അല്ലെങ്കിൽ ആർഎംഎസ് മൂല്യമാണ് പവർ സിസ്റ്റത്തിലെ പൊതു പാരമ്പര്യം ആർഎംഎസ് മൂല്യങ്ങളുടെ ഉപയോഗമാണ് ഈ മൊഡ്യൂളിൽ വോൾട്ടേജും കറന്റും നമ്മൾ ആർഎംഎസ് മൂല്യങ്ങളിൽ പരിഗണിക്കും അല്ലെങ്കിൽ ചർച്ചയിൽ പ്രസ്താവിക്കും അതിനാൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് നമുക്ക് സീക്വൻസ് അല്ലെങ്കിൽ ഫേസ് ക്രമീകരണത്തിന്റെ പോസിറ്റീവ് സീക്വൻസ് ലഭിക്കും ഇവിടെ എന്നത് എയർ ഗ്യാപ്പ് വിടവ് ഫ്ലക്സിന്റെ ഭ്രമണ ദിശയിൽ ക്രമീകരിച്ചിരിക്കുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ കാണുകയാണെങ്കിൽ റോട്ടറും സ്റ്റേറ്ററും 1 ഫ്ലക്സ് സൃഷ്ടിക്കും അത് ഈ ഫേസകളുടെ ഭ്രമണത്തിന് കാരണമാകും എതിർ ഘടികാരദിശയിൽ ക്രമീകരിക്കുന്നതായി നമുക്ക് കാണും ക്രമീകരണത്തെ സീക്വൻസിൻറെ ഫേസ് ക്രമീകരണം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫേസിൻറെ പോസിറ്റീവ് സീക്വൻസ് ക്രമീകരണമായി വിളിക്കാം എന്നത് നേക്കാൾ മുന്നേറുകയും അത് നേക്കാൾ മുന്നേറുകയും ചെയ്യും ഈ ക്രമത്തിൽ നയിക്കുന്ന ലീഡുകൾ ഉത്പാദിപ്പിക്കുന്നത് ചിത്രത്തിൽ കണ്ടതുപോലെ റോട്ടർ എതിർ ഘടികാരദിശയിൽ കറങ്ങുന്നുതു കൊണ്ടാണ് ഫേസ് വോൾട്ടേജ് സമയവുമായി ബന്ധപ്പെട്ട് അവയുടെ ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ എത്തുന്ന ക്രമമായും ഈ ഫേസ് സീക്വൻസ് കണക്കാക്കാം ക്രമീകരണം എന്നാണെങ്കിൽ ആദ്യം എ അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ എത്തുമെന്ന് കാണും തുടർന്ന് ബി അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലെത്തും തുടർന്ന് സി ഈ ഫേസ് ക്രമീകരണത്തിൽ അതിന്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലെത്തും

ഇപ്പോൾ മറ്റൊരു ഫേസ് സംയോജനമുണ്ട് അവിടെ എന്നത് നേക്കാൾ മുന്നേറുകയും അത് നേക്കാൾ മുന്നേറുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഇപ്പോൾ സീക്വൻസ് abc എന്നാണ് ഇത് സാധാരണയായി നെഗറ്റീവ് സീക്വൻസ് എന്ന് വിളിക്കുന്നു ഈ കേസിൽ എന്നത് നേക്കാൾ മുന്നേറുകയും അത് നേക്കാൾ 120 മുന്നേറുകയും ചെയ്യും റോട്ടർ ഘടികാരദിശയിൽ കറങ്ങുമ്പോൾ സീക്വൻസ് ഉൽപാദിപ്പിക്കപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ കണക്കാക്കിയാൽ ഫേസ് ഡയഗ്രാമിലെ നിശ്ചിത പോയിന്റിലൂടെ ഫേസർ കടന്നുപോകുന്ന ക്രമത്തിലാണ് ഫേസ് ക്രമം നിർണ്ണയിക്കുന്നത് എന്നത് പോസിറ്റീവ് സീക്വൻസായി കണക്കാക്കുകയും നെഗറ്റീവ് ഫേസ് സീക്വൻസായി കണക്കാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം ഈ 3 ഫേസ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ചർച്ച അടുത്ത സെഷനിലും തുടരും